നമ്മൾ RF എനർജി ഹാർവെസ്റ്റിംഗ് നെ കുറിച്ച് പരിശോധിച്ചിരുന്നില്ലേ അതിനായി നമ്മൾ ചില വിശേഷപ്പെട്ട സർക്യൂട്ടുകൾ നോക്കി വോൾട്ടേജ് ഡബ്ലർ പോലെ തുടർന്ന് RF എനർജി സംഭരിക്കുന്നതിനുള്ള സാധ്യത പരിശോധിച്ചു അതിനു ശേഷം നിങ്ങൾക്ക് ആ RF എനർജി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി ആ RF എനർജി യുടെ സ്വഭാവ സവിശേഷതകൾ എങ്ങനെ കണ്ടെത്താമെന്നും നോക്കി കാര്യക്ഷമതയുടെ കാര്യത്തിലും ആവശ്യമുള്ള വ്യത്യസ്ത ഇന്പുട് പവർ തരങ്ങളുടെ കാര്യത്തിലും അങ്ങനെ പലതും ഇപ്പോൾ നമുക്ക് വൈബ്രേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം എനർജി ഹാർവെസ്റ്റിംഗ് നുള്ള മറ്റൊരു നല്ല ഉറവിടമാണ് വൈബ്രേഷൻ കാരണം വൈബ്രേഷനുകൾ നമ്മിലുടനീളം നമുക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്ന സൈക്കിൾ മോട്ടോർ ഉപയോഗിക്കുന്ന 2 വീലറുകൾ 4 വീലറുകൾ കാറുകൾ ബസുകൾ വിമാനങ്ങൾ എന്നിവയിൽ പോലും വൈബ്രേഷനുകൾ ഉണ്ട് അതിനാൽ നമുക്ക് ചുറ്റും വൈബ്രേഷനുകൾ ഉണ്ട് വളരെ പഴയ മോഡലല്ലെങ്കിൽ മിക്കതും കുറഞ്ഞ ഗ്രേഡാണെന്ന് ഞാൻ സമ്മതിക്കുന്നു വൈബ്രേഷൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല ശരിയല്ലേ വൈബ്രേറ്റു ചെയ്യുന്നുവെങ്കിൽ അത് വളരെ സുഖകരമല്ലെന്ന് അറിയുക അത് ഒരു വശമാണ് മറുവശത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വൈബ്രേഷനുകൾ ഉപയോഗപ്പെടുത്താനും എനർജി ഹാർവെസ്റ്റിംഗ് പ്രയോഗങ്ങൾക്കായി ഉപയോഗിക്കാനും കഴിയും ആളുകൾ വളരെക്കാലമായി പര്യവേക്ഷണം ചെയ്യുന്ന ഒരു കാര്യമാണിത് ടയർ പ്രഷർ മോണിറ്ററിംഗ് മേഖലയാണ് നിങ്ങൾ വളരെയധികം പേപ്പറുകളിൽ കാണാനും ധാരാളം കമ്പനികൾ ചെയ്യാൻ ശ്രമിക്കാനും സാധ്യതയുള്ള ഒരു ഉപയോഗം വൈബ്രേഷൻ മോണിറ്ററിംഗിൽ നിങ്ങൾ എടുക്കുന്ന ഏത് ഉദാഹരണവും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ടയർ പ്രഷർ മോണിറ്ററിംഗ് കാണാനാകും പക്ഷെ ആളുകൾ പറയുന്നതിന്റെ ഒരു വശം മാത്രമാണ് ഇത് അൾട്രാ ലോ പവറിലേക്ക് ഇലക്ട്രോണിക്സ് വികസിച്ചിരിക്കുന്നു കാര്യക്ഷമമായ ഉപകരണങ്ങൾ മാത്രമല്ല വളരെ കാര്യക്ഷമമായ ഹാവെസ്റ്ററുക ളും യാഥാർത്ഥ്യമായി ഇലക്ട്രോണിക്സ് അൾട്രാ ലോ പവർ ആണ് ഇലക്ട്രോണിക്സ്അൾട്രാ ലോ പവർ ആയതുകൊണ്ടും കാര്യക്ഷമമായ ഹാർവെസ്റ്റിംഗ് ഉപകരണങ്ങളുടെ സഹായം കൊണ്ടും വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റിംഗ് നടത്താം അതിനാൽ നമുക്ക് സമയം കളയാതെ നമുക്ക് എനർജി ഹാർവെസ്റ്റിംഗ് ന്റെ ഈ പ്രത്യേക വശത്തിന്റെ ഒരു ചെറിയ പ്രദർശനം കാണാം നമ്മൾ മുന്പോട്ടു പോകുന്നതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പശ്ചാത്തലം നൽകണമല്ലോ കാരണം പ്രകടനം മാത്രം കണ്ടാൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് അംഗീകരിക്കാൻ സാധിച്ചേക്കില്ല അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ചെറിയ പശ്ചാത്തലം തരാം നമ്മൾ കാണാൻ പോകുന്ന ഹാർവെസ്റ്റർ പീസോ ഇലക്ട്രിക് ആണ് ഇത് അടിസ്ഥാനപരമായി ഒരു പീസോസെറാമിക് വേഫറാണ് അതിനാൽ ഇത് പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ പീസോ മെറ്റീരിയൽ എന്ന നിലക്ക് നോക്കുകയാണെങ്കിൽ പീസോസെറാമിക് ആണ് അടിസ്ഥാന എനർജി ഹാർവെസ്റ്റിംഗിനായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നിലധികം വേഫറുകളുണ്ട് അടിസ്ഥാനപരമായി ഒരു എനർജി ഹാർവെസ്റ്റർ എന്ന് നമുക്ക് പറയാം ഇത് പീസോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ തത്വം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കില്ല വൈബ്രേഷൻ ഹാർവെസ്റ്റിംഗിനായി നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ഞങ്ങൾ വളരെ കഠിനവും ധാരാളം പരീക്ഷണങ്ങളിൽ നിന്നും കണ്ടെത്തിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു ഉപയോഗപ്രദമായ എന്തെങ്കിലും നേടിയെടുക്കുന്നതിന് മുമ്പ് വൈബ്രേഷൻ ഹാർവെസ്റ്റിംഗിന്റെ പല വശങ്ങളെക്കുറിച്ചും നിങ്ങൾ ശരിക്കും ഉത്കണ്ഠപ്പെടേണ്ടി വരും ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് ഈ ഹാർവെസ്റ്ററിനെ എങ്ങനെ ബന്ധിപ്പിക്കും എന്നതാണ് ആദ്യത്തെ ചോദ്യം നിങ്ങൾ ഇത് ബന്ധിപ്പിക്കുമോ നിങ്ങൾ ഇത് മെറ്റീരിയലുമായി ബന്ധിപ്പിക്കുമോ അതോ ഒരു കാന്റിലിവർ പോലെ സ്ഥാപിക്കുമോ നിങ്ങൾ ഇതിനെ ഇരുവശത്തും ബന്ധിപ്പിക്കുമോ അതോ നിങ്ങൾ ഇത് ലളിതമായി ഘടിപ്പിക്കുമോ സ്ക്രൂകളും മറ്റും ഉപയോഗിച്ച് ഘടിപ്പിക്കുമോ അതോ കാന്റിലിവർ പോലെ സ്ഥാപിക്കുമോ അതോ ഒട്ടിക്കുമോ അവയിൽ ഓരോന്നിനും അവരുടേതായ ഗുണങ്ങളുണ്ട് ഈ രീതികൾ ഓരോന്നും ഒരേ ഹാർവെസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത പ്രകടനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ഇത് ഒരു കാര്യമാണ് എന്റെ പ്രോജക്ട് സ്റ്റാഫുകളിലൊരാളായ മിസ്റ്റർ അഭിഷേക് 2 വീലറിൽ നിന്ന് ഹാർവെസ്റ് ചെയ്യാൻ ശ്രമിച്ചു വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ഊർജ്ജം ലഭിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ആദ്യം എഞ്ചിൻ ഭാഗത്തു നിന്നും പിന്നീട് മഡ് ഗാർഡിൽ വെച്ചും എന്നിട്ട് മികച്ച G മൂല്യം നൽകുന്നത് എന്താണെന്ന് കാണാൻ അദ്ദേഹം ശ്രമിച്ചു അതാണ് പ്രധാനതത്ത്വം G മൂല്യം കൂടുതലാണെങ്കിൽ ഹാർവെസ്റ്റിംഗ് മികച്ചതായിരിക്കും അതിനാൽ 1 ജിക്ക് പകരം 2 ജി ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ അത് വളരെ മികച്ചതാണ് കാരണം 1 ജി ഉപയോഗിച്ച് എക്സ്ട്രാക്റ്റുചെയ്യാനാകുന്നതിനേക്കാൾ കൂടുതൽ പവർ എക്സ്ട്രാക്റ്റുചെയ്യാൻ 2 ജിക്ക് കഴിയും അടിസ്ഥാനപരമായി ഇത് ആംപ്ലിറ്യൂടാണ് അല്ലേ അതിനാൽ ഈ ആംപ്ലിറ്റ്യൂഡ് എത്ര കൂടുന്നുവോ അത്ര കൂടുതൽ പവർ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ശേഖരിക്കാൻ കഴിയുന്നതാണ് അതിനാൽ G മൂല്യം കൂടുംതോറും പവർ ഔട്ട്പുട്ടും കൂടും ഇത് മറ്റൊരു വശമാണ് ഹാർവെസ്റ് ക്ലാമ്പ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇതെവിടെ സ്ഥാപിക്കും എന്നുള്ളതും B എന്നുള്ളത് അടിസ്ഥാനപനമായി എവിടെ സ്ഥാപിക്കും എന്നുള്ളതാണ് വൈബ്രേഷനുകൾ എവിടെയാണ് നല്ലതുപോലെ ഉള്ളത് എന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ അവിടെയാണ് എനർജി ഹാർവെസ്റ്റർ സ്ഥാപിക്കേണ്ടത് നിങ്ങൾ ഹാർവെസ്റ്റർ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം തീരുമാനിച്ചതിനു ശേഷം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടിവരുന്ന അടുത്ത പ്രശ്നം ബോണ്ടിങ് അഥവാ ഹാർവെസ്റ്റർ ഘടിപ്പിക്കുന്നത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അത് ഒരു കാന്റിലിവറായി ബന്ധിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അത് ഘടിപ്പിക്കണം സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്റ്റുചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എ ബി എന്നിവ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ തുടരുന്നതിന് മുമ്പ് ഈ 2 പ്രധാന ഘട്ടങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട മൂന്നാമതൊരു കാര്യമുണ്ട് മൂന്നാമത്തെ പ്രധാന കാര്യം ടിപ്പ് മാസുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് c ഇത് കുറച്ചുകൂടി നന്നായി എഴുതട്ടെ ഞാൻ ഈ clutter നീക്കംചെയ്യാം c ടിപ്പ് മാസ് ആണ് അപ്പോൾ എന്താണ് ഈ ടിപ്പ് മാസ് അടിസ്ഥാനപരമായി ഈ ടിപ്പ് മാസ് ബീം അനുരണനത്തിലേക്ക് ട്യൂൺ ചെയ്യുന്നതിനാണ് ഇതിനാലാണ് നിങ്ങൾ ടിപ്പ് മാസ് ഇടേണ്ടത് എന്നാൽ ഈ നാണയത്തിന് എല്ലാ വശങ്ങളുമുണ്ട് നിങ്ങൾ ടിപ്പ് മാസ് ഇടുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ടിപ്പ് പിണ്ഡം നൽകിയാൽ എന്ത് സംഭവിക്കും മെക്കാനിക്കൽ സമവാക്യങ്ങളുടെ വലിയ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ പൂർണ്ണമായ വിശദാംശങ്ങൾ മനസിലാക്കാതെ ഒരു ഹാർവെസ്റ്റിംഗ് വീക്ഷണകോണിൽ നിന്ന് ഊർജ്ജം വേർതിരിച്ചെടുക്കുന്ന വീക്ഷണകോണിൽ നിന്ന് ടിപ്പ് മാസ്സ് എന്ന ആശയം നമുക്ക് മനസിലാക്കാം ഇപ്പോൾ നിങ്ങൾ ടിപ്പ് മാസ്സ് ഇടുകയാണെങ്കിൽ പ്രധാനമായും നിങ്ങൾ ഡാംപ് ചെയ്യുകയാണ് നിങ്ങൾ ബീമിനെ അനുരണനത്തിലേക്ക് ട്യൂൺ ചെയ്യുന്നു പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ സിസ്റ്റത്തെ ഡാംപ് ചെയ്യുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സെന്സിറ്റിവിറ്റി വളരെയധികം മെച്ചപ്പെടുന്നു എന്നതാണ് നിങ്ങൾക്ക് നല്ല സെന്സിറ്റിവിറ്റി ലഭിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ G മൂല്യത്തിന് ഒരു ടിപ്പ് മാസ്സ് നൽകിയാൽ നിങ്ങൾക്ക് ഉയർന്ന G ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നാൽ മറ്റൊന്ന് ഉണ്ട് വ്യക്തമായും സെന്സിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അടിസ്ഥാനപരമായി നിങ്ങൾ ഒരു ടിപ്പ് മാസ്സ് ഇടുകയാണെങ്കിൽ സെന്സിറ്റിവിറ്റി മെച്ചപ്പെടുമ്പോൾ ആവൃത്തികളുടെ പരിധിയിലുടനീളം ഊർജ്ജം പുറത്തെടുക്കുന്നതിനുള്ള കഴിവ് കുറയുന്നു അതാണ് പ്രശ്നം ഞാൻ ഒരു പുതിയ കടലാസിൽ എഴുതട്ടെ ടിപ്പ് മാസ്സ് സെന്സിറ്റിവിറ്റി മെച്ചപ്പെടുത്തുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആവൃത്തികളുടെ ശ്രേണിയിൽ സമ്പൂർണമായി ഊർജം എക്സ്ട്രാക്റ്റുചെയ്യാനുള്ള അതിന്റെ കഴിവ് കുറയുന്നു അതിനാൽ ഇതാണ് പ്രശ്നം നിങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു ഞാൻ എങ്ങനെ ട്യൂൺ ചെയ്യും എന്നതാണ് പ്രശ്നം ഒരു ടിപ്പ് മാസ്സ് പ്രയോഗിച്ച് തന്നിരിക്കുന്ന സ്പോട്ട് ഫ്രീക്വൻസിയിലേക്ക് ഞാൻ എങ്ങനെ ട്യൂൺ ചെയ്യും ഈ സ്പോട്ട് ആവൃത്തി ഞാൻ എങ്ങനെ കണ്ടെത്തും ബീമിനെ റെസൊണൻസിലേക്ക് ട്യൂൺ ചെയ്ത് കൊണ്ടുവരുന്നതിനായി ടിപ്പ് മാസ്സ് എങ്ങനെ സ്ഥാപിക്കും അതൊരു പ്രശ്നമാണ് എനർജി ഹാർവെസ്റ്റിംഗിന്റെ വീക്ഷണകോണിൽ നിന്ന് ഞാൻ കൂടുതൽ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇത് അർത്ഥവത്താകുന്നു ഒരു ടിപ്പ് മാസ്സ് ഇടുക അതിന്റെ സെന്സിറ്റിവിറ്റി മെച്ചപ്പെടുത്തുക അതുവഴി ഒരു ചെറിയ ശ്രേണിയിലുള്ള ആവൃത്തികളിൽ ഇത് പ്രവർത്തിക്കുന്നു വാസ്തവത്തിൽ ഇത് ഒരു സ്പോട്ട് ഫ്രീക്വൻസി ആയിരിക്കാം തുടർന്ന് നിങ്ങൾ പരമാവധി G മൂല്യം വേർതിരിച്ചെടുക്കുകയും സിസ്റ്റത്തെ പവർ ചെയ്യുന്നതിന് ആ G മൂല്യം ഉപയോഗിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് പ്രധാന കാര്യം അതിനാൽ ചുരുക്കി പറഞ്ഞാൽ അനുരണന ആവൃത്തി കുറയ്ക്കുക ടിപ്പ് മാസ്സ് ഇല്ലാതെ നിങ്ങൾ അനുരണന ആവൃത്തി വർദ്ധിപ്പിക്കുന്നു ഇതാണ് സിസ്റ്റത്തിന്റെ വലിയ സംഗ്രഹം ഇതിലൂടെ വൈബ്രേഷൻ എനെർജി ഹാർവെസ്റ്റിംഗിനു പിന്നിലെ സിദ്ധാന്തം നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ കൂടുതൽ സമയം പാഴാക്കാതെ സിസ്റ്റത്തിന്റെ നല്ലൊരു പ്രദർശനം നമുക്ക് നോക്കാം ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമാണ് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഓണാണ് നിങ്ങൾ കണ്ടതുപോലെ അഭിഷേക് അത് സ്വിച്ച് ഓൺ ചെയ്തു ഇത് വൈബ്രേറ്റുചെയ്യുന്നുണ്ട് ഇതാണ് വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റർ ഇത് അടിസ്ഥാനപരമായി ബോണ്ടഡ് അല്ല പക്ഷേ ഇതിന് ഇവിടെ ഒരു ടിപ്പിംഗ് മാസുണ്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ഈ സ്ക്രൂ ഉപയോഗിച്ച് വൈബ്രേറ്റുചെയ്യുന്ന ഈ ഉപരിതലത്തിലേക്ക് ഇത് ഉറപ്പിച്ചിരിക്കുന്നു കൂടാതെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മുന്നോട്ട് പോകുന്നതിനുമുമ്പ് അൽപ്പം സൂം ചെയ്യട്ടെ ഇതാണ് ഇവിടെയുള്ള ടിപ്പ് മാസ് ഇതാണ് വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റർ ഇത് ഇപ്പോൾ വൈബ്രേറ്റുചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഒരു സ്ക്രൂ ഉപയോഗിച്ച് ഇത് ഇവിടെ ഘടിപ്പിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് നമ്മൾ എടുക്കുന്ന ഔട്ട്പുട്ട് ഇവിടെ വളരെ ചെറിയ പിസിബി ഉണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ഈ പിസിബിയെക്കുറിച്ച് ചർച്ച ചെയ്യും നല്ലൊരു ഡിസി ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് ഓസിലോസ്കോപ്പിൽ കാണാൻ കഴിയും അതിനാൽ നമുക്ക് ഓസിലോസ്കോപ്പിലേക്ക് പോയി ഔട്ട്പുട്ട് കാണാം അതെ നിങ്ങൾ ഇപ്പോൾ ഓസിലോസ്കോപ്പ് ഔട്ട്പുട്ട് ആണ് കാണുന്നത് നമുക്ക് ഏകദേശം 10 വോൾട്ടിനു അടുത്താണ് DC ഔട്ട്പുട്ട് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഈ പ്രദർശനത്തിനു പിന്നിലെ ഉദ്ദ്യേശം പ്ലേസ്മെന്റിനെ അടിസ്ഥാനമാക്കി ഈ വോൾട്ടേജ് യഥാർത്ഥത്തിൽ മാറുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാർവെസ്റ്ററിനെ ചലിപ്പിക്കുക എന്നതാണ് നമ്മൾ പ്ലാറ്റ്ഫോം നീക്കുമ്പോൾ വൈബ്രേഷൻ ആവൃത്തികൾ വ്യത്യസ്തമാണെന്ന് കാണുക ഈ ഔട്ട്പുട്ട് ഹാർവെസ്റ്ററിനെ ചലിപ്പിക്കുന്നതിലൂടെ 20 വോൾട്ട് വരെ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഹാർവെസ്റ്ററിന്റെ കൃത്യമായ സ്ഥാനം ഹാർവെസ്റ്ററിൽ നിന്ന് കൂടുതൽ പവർ പുറത്തെടുക്കുന്നതിനുള്ള കഴിവ് നൽകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചകമാണ് ഇത് ഞാൻ നിങ്ങളെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു നമ്മൾ തിരഞ്ഞെടുത്ത ടിപ്പ് മാസ്സ് ഏകദേശം 15 ഗ്രാം ആണ് ഏകദേശം 15 ഗ്രാം ആണെന്ന് ഞാൻ പറയും ഞാൻ 15 ഗ്രാം ഇട്ടു സിസ്റ്റം നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് നൽകുന്നുവെന്ന് നമ്മൾ കണ്ടെത്തി ഏത് ആവൃത്തിയിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഈ സിസ്റ്റം മുഴുവനും വൈബ്രേറ്റുചെയ്യുന്നു നമ്മൾ എങ്ങനെ ഈ സിസ്റ്റത്തെ ട്യൂൺ ചെയ്യും ഇത് ഒരു നല്ല ഔട്ട്പുട്ട് നൽകുന്നു എന്നതിനപ്പുറം മറ്റൊന്നും നമ്മൾക്ക് അറിയില്ല വ്യക്തമായും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിന്റെ സവിശേഷതകൾ പഠിക്കണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ടിപ്പ് മാസ്സ് പ്രയോഗിക്കാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് പരമാവധി ഊർജ്ജം പുറത്തെടുക്കാൻ കഴിയും ഒരുപക്ഷേ ഞങ്ങൾ ഇപ്പോൾ ചെയ്തതുപോലും അനുയോജ്യമല്ല അതിനായി നമ്മൾക്ക് ഉപകരണങ്ങൾ ആവശ്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്ലാംസ്റ്റിക്ക് എന്ന ഉപകരണമാണ് അതാണ് ഇപ്പോൾ എന്റെ കയ്യിൽ ഉള്ളത് അതിനാൽ ഇതൊരു സ്ലാം സ്റ്റിക്കാണ് അടിസ്ഥാനപരമായി ഇത് ഒരു ചെറിയ എംബെഡ്ഡ്ഡ് ഉൽപ്പന്നമാണ് ഇത് ഇതിനോട് അല്പം അടുക്കാൻ കഴിയും ദയവായി ഇതിനെ കൂടുതൽ അടുപ്പിക്കുക അതെ അതിനാൽ ആ പ്ലാറ്റ്ഫോമിൽ സ്ഥാപിക്കുകയാണെങ്കിൽ ഇത് ഒരു ലളിതമായ ഉൽപ്പന്നമാണ് അത് വൈബ്രേഷൻ ഡാറ്റ പിടിച്ചെടുത്ത് മെമ്മറിയിൽ സൂക്ഷിക്കണം അതിനുശേഷം ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റുചെയ്ത് ഡാറ്റ എക്സ്ട്രാക്റ്റുചെയ്ത് എവിടെ നിന്ന് സിസ്റ്റം എനർജി ശേഖരിക്കുന്നുവെന്ന് കണ്ടെത്തുക അതിനാൽ അടുത്ത ഘട്ടമായി ഞങ്ങൾ അത് ചെയ്യുകയും ഞങ്ങളുടെ പൂർണ്ണമായ സിസ്റ്റം ട്യൂൺ ചെയ്യാൻ അനുവദിക്കുന്ന ഫ്രീക്വൻസി സ്പെക്ട്രം മനസ്സിലാക്കുകയും ചെയ്യും എന്നാൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അടിസ്ഥാനപരമായി അതിനുള്ളത് ഒരു ഹാർവെസ്റ്റർ ആണ് ഒരു വൈബ്രേഷൻ പീസോ ഘടകമുണ്ട് പീസോ ഘടകം നിങ്ങൾക്ക് എസി ഔട്ട്പുട്ട് നൽകുന്നു അതിനാൽ ഇത് ഒരു റക്റ്റിഫയറിലൂടെ കടന്നുപോകണം ഷോട്ട്കി ഡയോഡുകൾ ഉപയോഗിക്കുന്നത് ഓർക്കുക അതുവഴി നിങ്ങൾക്ക് ഡയോഡുകളിലുടനീളം കുറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പുകൾ ലഭിക്കും കൂടാതെ പവർ എക്സ്ട്രാക്റ്റുചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് കൂടുതൽ മികച്ചതായിരിക്കും ഒരു കപ്പാസിറ്ററിൽ ഇടുക ഇതാണ് നിങ്ങളുടെ സ്റ്റോറേജ് കപ്പാസിറ്റർ സ്റ്റോറേജ് ക്യാപ് നിങ്ങൾക്ക് കൂടുതൽ ബൂസ്റ്റ് ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് കൺവെർട്ടർ ആവശ്യമില്ല എന്തുകൊണ്ട് കാരണം ഇതിനകം തന്നെ റെക്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ഏകദേശം പ്ലസ് 20 വോൾട്ടു കിട്ടും ഹാർവെസ്റ്ററുകൾ നിങ്ങൾക്ക് വളരെയധികം വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്നു പവർ ക്യാരക്ടറൈസേഷൻ മറ്റൊരു കാര്യമാണ് എക്സ്ട്രാക്റ്റുചെയ്യാനുള്ള പരമാവധി പവർ ഏതാണ് എനർജി ഹാർവെസ്റ്റിനെക്കുറിച്ച് നമുക്കറിയാവുന്ന എല്ലാറ്റിന്റെയും ആദ്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് വീണ്ടും ചെയ്യേണ്ടിവരും നിലവിലെ കറന്റ് വോൾടേജ് ക്യാരക്ടറൈസേഷൻ നിങ്ങൾ ചെയ്യണം വി ഐ ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ ഐവി സവിശേഷതകൾ ശ്രദ്ധിക്കുക സോളാർ അല്ലെങ്കിൽ തെർമോ ഇലക്ട്രിക് ജനറേഷൻ പോലുള്ള എല്ലാത്തരം ഹാർവെസ്റ്റുകൾക്കും വൈബ്രേഷൻ ഹാർവെസ്റ്റുകൾക്കും കാറ്റ് പോലെയുള്ള മറ്റേതെങ്കിലും രൂപത്തിനും നിങ്ങൾ ഈ IV ക്യാരക്ടറൈസേഷൻ ചെയ്യേണ്ടതുണ്ട് അതിനാൽ പരമാവധി loop RF നെക്കുറിച്ചും ഞങ്ങൾ വളരെയധികം ചർച്ചചെയ്തു ഇവിടെ ഞങ്ങൾ ഒരു ലോഡ് റെസിസ്റ്ററിന്റെ ഉദാഹരണം എടുക്കുകയും 2 ആവൃത്തികളിലുടനീളം ഒരു ലോഡ് റെസിസ്റ്ററിന് അത് പരമാവധി ഔട്ട്പുട്ട് നൽകുന്നുണ്ടെന്നും അതിനാൽ കാര്യക്ഷമത വളരെ ഉയർന്നതാണെന്നും ഉറപ്പാക്കുക അതിനാൽ അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു അതിനാൽ വൈബ്രേഷൻ ഹാർവെസ്റ്ററുമായി പോലും ബന്ധപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സിസ്റ്റത്തിന്റെ IV സ്വഭാവം നിങ്ങൾ പ്ലോട്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു പോറ്റൻഷ്യോമീറ്റർ എടുക്കുക അടിസ്ഥാനപരമായി പൊട്ടൻഷ്യോമീറ്ററിന്റെ മൂല്യം മാറ്റിക്കൊണ്ടിരിക്കും സമയ അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ കഴിയും എന്തായാലും ഇവിടെ ലഭ്യമായ ഡിസി വോൾട്ടേജ് ഒരു പൊട്ടൻഷ്യോമീറ്ററിലുടനീളം ഉപയോഗിക്കുകയും നിലവിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അളക്കുകയും ചെയ്യും അളക്കുന്നത് തുടരുക ഈ രജിസ്റ്റർ മാറ്റുന്നത് തുടരുക ഇതിലൂടെയുള്ള വോൾട്ടേജും ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയും അളക്കുന്നത് തുടരുക അതിനാൽ പ്ലോട്ട് V വേഴ്സസ് I വളരെ ഫലപ്രദമായി വരയ്ക്കാം അതിനാൽ വൈബ്രേഷൻ ഹാർവെസ്റ്റിനു പോലും നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് അതിനാൽ സിസ്റ്റത്തിന്റെ വൈബ്രേഷൻ പ്രൊഫൈൽ എങ്ങനെയുണ്ടെന്ന് കാണാൻ നമുക്ക് തിരികെ പോയി സ്ലാമുകൾ എടുക്കാൻ ശ്രമിക്കാം അതിനാൽ ഇത് ഒരു നല്ല ഉപകരണമാണെന്ന് കാണാൻ ശ്രമിക്കാം എനർജി ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകൾക്ക് ഇത് വളരെ സൌകര്യപ്രദമാണ് നിങ്ങൾ എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്ലാറ്റ്ഫോമിനെ ക്യാരക്റ്ററീസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഇത് ഒരു ചെറിയ ചെറിയ കാര്യമാണ് ഇതിനെ സ്ലാംസ് ടിക് എന്ന് വിളിക്കുന്നു ഇത് മിഡ്ഡേയിലും ലഭ്യമാണ് ഇത് നിങ്ങൾക്ക് ഇവയെല്ലാം വാങ്ങാൻ കഴിയുന്ന വെബ്സൈറ്റാണ് എനർജി ഹാർവെസ്റ്ററും മിഡ്ഡേ യിൽ ലഭിക്കും എന്റെ പ്രോജക്റ്റ് സ്റ്റാഫ് അത് നോക്കുകയായിരുന്നു അതിനാൽ ഊർജ്ജം എങ്ങനെ ശേഖരിക്കാമെന്ന് പൂർണ്ണമായും മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് അല്ലാത്തപക്ഷം സ്വഭാവ സവിശേഷത കണ്ടെത്താനും കണ്ടെത്താനും നിങ്ങൾക്ക് പ്രയാസമാണ് അതിനാൽ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾക്കായി എനർജി ഹാർവെസ്റ്റിംഗ് ഉപയോഗിക്കുന്നതിന് മുമ്പ് സിസ്റ്റം നമുക്ക് നോക്കാം അതിനാൽ ഈ ബോക്സിൽ ഇടുക അത് അത്രയും ലളിതമാണ് നിങ്ങൾക്ക് ഇവിടെ വയ്ക്കാവുന്ന ഒരു ടേപ്പ് ഉണ്ട് തുടർന്ന് ഇവിടെ ഈ ഉപരിതലത്തിൽ ഒട്ടിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ അമർത്തിയാൽ അത് ശരിയായി ഡാറ്റ ശേഖരിക്കും അതിനാൽ അവിടെ ഒരു ചെറിയ എൽഇഡി ഉണ്ട് അത് ഇവിടെ കത്തുന്നു എന്നിട്ട് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്നിട്ട് അത് മറ്റൊരു നല്ല ഉപകരണത്തിലേക്ക് കൊണ്ടുവരിക അതിനാൽ കൃത്യമായി ഇത് ചെയ്യും കാരണം ഇവിടെ ഒരു നല്ല യുഎസ്ബി പോർട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് മാത്രമല്ല കാരണം ഇത് സ്വയം പ്രവർത്തിക്കുന്ന യൂണിറ്റാണ് ഔട്ട്പുട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും വളരെ ഉപയോഗപ്രദമാണ് ക്യാരക്ടറിസഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യും ഉപകരണത്തിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഞാൻ കാണിച്ചുതരാം X അക്ഷത്തിൽ 0 മുതൽ 1400 വരെയുള്ള ആവൃത്തിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇത് ആക്സിലറേഷൻ കണ്ടെത്തി അടിസ്ഥാനപരമായി ഇത് ആക്സിലറോമീറ്ററിന്റെ വേഗതയേറിയ എഫ്എഫ്ടിയാണ് ഇത് ഓണാണ് ഇത് ഈ ഉപകരണത്തിനുള്ളിലാണ് അടിസ്ഥാനപരമായി ഈ ഉപകരണത്തിനുള്ളിൽ ഒരു MEMS ആക്സിലറോമീറ്റർ ഉണ്ട് നിങ്ങൾ ഇവിടെ കാണുന്ന ഉപകരണം ഡാറ്റയെ യഥാർത്ഥത്തിൽ 1000 3200 കിലോബിറ്റ് സെക്കൻഡിൽ പിടിച്ചെടുക്കുന്നു ഇത് 3 2 കിലോഹെർട്സ് സാമ്പിൾ ചെയ്യുന്നു ഈ സിസ്റ്റത്തിന് ഊർജ്ജം ശേഖരിക്കാൻ കഴിയുന്ന നിരവധി ആവൃത്തികൾ ഇത് നിങ്ങളോട് പറയുന്നു 3 G ക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ പീക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഏകദേശം 30 കിലോഹെർട്സ് 30 ഹെർട്സ് ആവൃത്തിയിൽ ഏകദേശം നൂറോളം ഹെർട്സ് 0 9 ജിക്ക് അടുത്തുള്ള മറ്റൊന്ന് ഉണ്ട് വീണ്ടും 120 ഹെർട്സ് അല്ലെങ്കിൽ അതിൽ അൽപം G മൂല്യമുണ്ട് അത് നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം ആവശ്യമുള്ള ഹാർവെസ്റ്റിംഗ് നടത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 0 3 മുതൽ 0 9 വരെ അല്ലെങ്കിൽ 1 G ക്ക് ശേഷം എവിടെയും കഴിയും ഒരു ടിപ്പ് മാസ്സ് നൽകി ഒരു പ്രത്യേക സ്പോട്ട് ഫ്രീക്വൻസിക്ക് നിങ്ങൾ ഇപ്പോൾ ട്യൂൺ ചെയ്യുക സിസ്റ്റം വൈബ്രേറ്റുചെയ്യുന്നിടത്തോളം കാലം ഈ ആവൃത്തി ഘടകങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് പ്രത്യേക ആവൃത്തിയിൽ ഹാർവെസ്റ് ചെയ്യും അതിനാൽ അതാണ് ഇവിടെ പ്രധാന കാര്യം നിങ്ങൾക്ക് പ്രധാനമായും ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും നിങ്ങൾക്ക് ഈ ചെറിയ ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് രസകരമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഇതിൽ 3 ആക്സിസ് ആക്സിലറോമീറ്റർ മാത്രമല്ല മർദ്ദ വിവരങ്ങളും അടങ്ങിയിരിക്കുന്നു X അക്ഷം സമയമാണെന്നും y അക്ഷം അളക്കുന്ന മർദ്ദമാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് താപനിലയും അളക്കുന്നു അതിനാൽ 3 നിർണായക പാരാമീറ്ററുകൾ ലഭ്യമാണ് താപനില മർദ്ദം ആക്സിലറോമീറ്റർ അതിനാൽ ഇത് നിങ്ങൾക്ക് സമയ ശ്രേണി നൽകുന്നു ഇത് നിങ്ങൾക്ക് 3 ആക്സിസ് ആക്സിലറോമീറ്റർ മൂല്യങ്ങൾ നൽകുന്നു 3 നിറങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ റെൻഡർ ചെയ്യുക തുടർന്ന് നിങ്ങൾ FFT ചെയ്യുക നിങ്ങൾ അത് അമർത്തിയാൽ ഈ എഫ്എഫ്ടി പ്ലോട്ട് നൽകും അതിനാൽ ഇത് ഡാറ്റയും പ്രോസസ് ചെയ്തതു ഈ വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് മറ്റ് നിരവധി രസകരമായ കാര്യങ്ങളും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്പെക്ട്രോഗ്രാം നേടാനും സ്പെക്ട്രോഗ്രാം റെൻഡർ ചെയ്യാനും കഴിയും അതിനാൽ ഇതാണ് സ്പെക്ട്രോഗ്രാം നമുക്ക് നോക്കാം അതിനാൽ ഇത് x അക്ഷത്തിന് വേണ്ടിയുള്ളതാണ് ഇത് y അക്ഷത്തിന് വേണ്ടിയുള്ളതാണ് ഇത് z അക്ഷത്തിന് വേണ്ടിയാണ് അവയാണ് ഈ സ്പെക്ട്രോഗ്രാം തീർച്ചയായും സമയത്തിനനുസരിച്ച് ആവൃത്തിയും വ്യാപ്തിയും മാറുന്നു അടിസ്ഥാനപരമായി ഇത് പ്രതിനിധീകരിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് അതിനാൽ കാലക്രമേണ ഈ പ്രത്യേക ആവൃത്തി എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ x അക്ഷം എന്നത് സമയവും ആവൃത്തി y അക്ഷത്തിലുമാണ് അടിസ്ഥാനപരമായി ആവൃത്തിയുടെ സമയ ശ്രേണി ആവൃത്തികൾ യഥാർത്ഥത്തിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നതും x y z എന്നിവയുമായി തുല്യമാണെന്നും ഇത് നിങ്ങളോട് പറയുന്നു അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമായ മറ്റൊരു ഉപകരണമാണ് യഥാർത്ഥത്തിൽ ഡൌൺലോഡ് ചെയ്യാൻ സൌജന്യമാണ് ആർക്കും ഈ ഉപകരണം ഡൌൺലോഡ് ചെയ്യാനും യഥാർത്ഥത്തിൽ ഈ ഉപകരണം ഉപയോഗിച്ച് പ്ലേ ചെയ്യാനും ഈ ടൂളിനെക്കുറിച്ച് സ്വയം പരിചയപ്പെടാനും കഴിയും അതിനാൽ ഇത് നിങ്ങൾക്ക് വളരെ രസകരമായ കാര്യമാണ് ചില ആളുകൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എനെർജിയുടെ വീക്ഷണകോണിൽ നിന്ന് നമുക്ക് പറയാം ഉദാഹരണത്തിന് ഒരു വാഹനമുണ്ടെങ്കിൽ എനർജി വൈബ്രേഷൻ എനെർജിയുടെ അളവ് ഒരു നിശ്ചിത പരിധി കവിയാൻ പാടില്ല ആരെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് മനസിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്നറിയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും ഇത് ഉപയോഗപ്രദമാകും അതിനാൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ലഭിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം ഇതാ അടിസ്ഥാനപരമായി G യുടെ കാര്യത്തിൽ വരുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് ഫ്രീക്വൻസി ഘടകം ഇതാണ് പവർ ഫ്രീക്വൻസി G സ്ക്വയർഡ് ഹെർട്സ് ലഭ്യമായ വൈബ്രേഷൻ എനർജിയുടെ അടിസ്ഥാന പവർ സ്പെക്ട്രൽ സാന്ദ്രത ഇത് നിങ്ങളോട് പറയും അതിനാൽ നിങ്ങളുടെ പക്കൽ ഒരു വൈബ്രേഷൻ ഹാർവെസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാനും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ടിപ്പിംഗ് മാസ് ഏത് ആവൃത്തിയിൽ കണ്ടെത്തണമെന്ന് കണ്ടെത്താനുള്ള അടിസ്ഥാന മാർഗ്ഗമാണിത് ടിപ്പിംഗ് മാസ് എന്തായിരിക്കണം എനർജി ഹാർവെസ്റ്റിംഗ് ഏത് ആവൃത്തിയിലാണ് ഈ 2 ടൂളുകൾ പഠിക്കുന്ന എല്ലാവർക്കുമായി ഈ പ്രത്യേക ഉപകരണം വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റിംഗിന് ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയെ മനസിലാക്കാൻ സഹായിക്കും അതിനാൽ കൂടുതൽ വിശദമായി പറഞ്ഞാൽ ഇത് അടിസ്ഥാനപരമായി ഒരു DC റെസ്പോൻസ് MEMS സെൻസറാണ് എന്താണ് ഈ സ്ലാം സ്റ്റിക്കുകൾ ഇത് അടിസ്ഥാനപരമായി ഒരു DC റെസ്പോൻസ് MEMS ഉപകരണമാണ് സാമ്പിൾ ആവൃത്തിയെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ആവശ്യമുള്ള ആവൃത്തിയിൽ ഉയർന്ന അളവിൽ സാമ്പിൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ നഷ്ടപ്പെടും കാരണം നിങ്ങൾ പോയിൻറുകൾ വളരെ വിരളമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ശരിയായ G മൂല്യം ന ഷ്ടപ്പെടാം അതിനാൽ ഇത് തീർച്ചയായും ഒരു പ്രശ്നമായിരിക്കാം മാത്രമല്ല ഒപ്റ്റിമൽ അല്ല അതിനാൽ നിങ്ങൾക്ക് ഈ സാമ്പിൾ ആവൃത്തി വേണ്ടത്ര നന്നായി സജ്ജമാക്കാൻ കഴിയണം അതിനാൽ വൈബ്രേഷൻ തരംഗരൂപം കഴിയുന്നത്ര കൃത്യമായി പിടിച്ചെടുക്കാനും പുനർനിർമ്മിക്കാനും നിങ്ങൾക്ക് കഴിയും ഇത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സാമ്പിൾ ഫ്രീക്വൻസി വളരെ നിർണായകമായ കാര്യമാണെന്ന് എഞ്ചിനീയർമാരെന്ന നിലയിൽ നിങ്ങൾക്കറിയാം 2 കിലോഹെർട്സ് സാമ്പിൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ നിങ്ങളെ കാണിച്ച ഫലങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സാധാരണ 20 കിലോഹെർട്സ് സാമ്പിൾ വരെ പോകാം അതിനാൽ ഇത് കുറഞ്ഞ മൂല്യമുള്ള കുറഞ്ഞ സാമ്പിളിംഗും ഇത് ഉയർന്ന സാമ്പിളുമാണ് ഇത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി സജ്ജമാക്കാൻ കഴിയുന്ന ഒന്നാണ് അതിനാൽ വളരെ കൃത്യമായ ഒന്ന് ഞാൻ പറയും എല്ലാ എനർജിഹാർവെസ്റ്റിംഗ് ആപ്ലിക്കേഷനുകളും പരിഗണിക്കുക ഇതുപോലുള്ള ഒരു ടൂൾ നേടുന്നതിന് നിങ്ങൾക്ക് നിക്ഷേപം നടത്താൻ കഴിയുമോ എന്ന് നോക്കുക അവസാനമായി വൈബ്രേഷൻ എനർജി ഹാർവെസ്റ്റിംഗും ഈ മെംസ് സ്ലാം സ്റ്റോക്കിന്റെ പ്രയോഗവും സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് പലവിധത്തിൽ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഇത് നിങ്ങൾക്ക് മർദ്ധ വിവരങ്ങളും നൽകാം ഇത് നിങ്ങൾക്ക് താപനില വിവരങ്ങളും നൽകാം അതിനാൽ ത്വരണം മൂല്യങ്ങൾ മാത്രമല്ല മർദ്ദവും താപനിലയും ഒരുമിച്ച് കാണാം നിരവധി തരം ഡാറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കുക നിങ്ങൾക്ക് വളരെ രസകരമായ ചില പഠനങ്ങൾ നടത്താൻ കഴിയും ഉദാഹരണത്തിന് മിഡ്ഡ്ഡേ ആളുകൾ വാർ വെണ്ടർ എന്നൊരു അപ്ലിക്കേഷൻ നിർദ്ദേശിക്കുന്നു ഒരു ഉറവിടമുണ്ട് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് റൂട്ട് നിശ്ചയിച്ചിട്ടുള്ള ഒരു കൊറിയർ അല്ലെങ്കിൽ ഒരു പാർസൽ സേവന സംവിധാനമുണ്ട് അടിസ്ഥാനപരമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള ചില വഴികളിലൂടെ അത് കടന്നുപോകുന്നു ഇപ്പോൾ പാർസൽ വഹിക്കുന്ന ആ ട്രക്ക് യഥാർത്ഥത്തിൽ ഈ മെംസ് സെൻസറുമായി സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ മർദ്ദ വിവരങ്ങളോടുകൂടിയ ആക്സിലറോമീറ്റർ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ മൂല്യങ്ങളുമായി ഒരുതരം പരസ്പരബന്ധം നേടാൻ കഴിയും ഈ പരസ്പരബന്ധം ഉപയോഗിച്ച് നിങ്ങൾക്ക് പാർസൽ സേവന സംവിധാനം സ്വീകരിച്ച റൂട്ടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കഴിയും അടിസ്ഥാനപരമായി ഡാറ്റാ അനലിറ്റിക്സിനായി അൽഗോരിതംസ് നിർദ്ദേശിക്കുന്നു ഉറവിടത്തിൽ നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള നിശ്ചിത റൂട്ട് പരിശോധിക്കുന്നതിനുള്ള അൽഗോരിതംസ് ആക്സിലറോമീറ്റർ മർദ്ദം സെൻസറിൽ നിന്നും താപനില സെൻസറിൽ നിന്നുമുള്ള ഡാറ്റ വിശകലനം ചെയ്തുകൊണ്ട് ട്രക്ക് യഥാർത്ഥത്തിൽ ആ വഴി സ്വീകരിച്ചോ പറയാൻ ശ്രേമിക്കും അവർ യഥാർത്ഥത്തിൽ ഡിടിഡബ്ല്യു എന്ന അൽഗോരിതം നിർദ്ദേശിച്ചു അതിനെ ഡൈനാമിക് ടൈം വാർപ്പിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ ദയവായി ഡിടിഡബ്ല്യു അൽഗോരിതം നോക്കി കുറച്ച് ഉദാഹരണങ്ങൾ പരീക്ഷിക്കുക അതിനാൽ ഡാറ്റ ശേഖരിക്കുക മാത്രമല്ല ഡാറ്റ വിശകലനം ചെയ്യാനും നിങ്ങളുടെ പക്കലുള്ള ഡാറ്റയിൽ നിന്ന് വിവരങ്ങൾ നൽകാനും നിങ്ങൾ പരിചിതരാണ് അതിനാൽ ഇത് ഒരു നല്ല കാര്യമാണ് ശരിയാണ് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഉറവിടം ഉറപ്പിക്കുകയും പാർസൽ സേവനത്തിന്റെ റൂട്ട് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് സ്ലാമുകൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡാറ്റ ശേഖരിക്കാൻ കഴിയും സമയത്തിന്റെ വ്യത്യസ്ത പോയിന്റുകളുമായി പൊരുത്തപ്പെടുന്നതിന് ഈ നല്ല ഡിടിഡബ്ല്യു ഡൈനാമിക് ടൈം വാർപ്പിംഗ് അൽഗോരിതം പ്രവർത്തിപ്പിക്കുക പാർസൽ സേവന സംവിധാനം സ്വീകരിച്ച റൂട്ടിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്തെങ്കിലും പറയുക ഇതുപയോഗിച്ച് എനർജിഹാർവെസ്റ്റിംഗിന്റെ നിരവധി വശങ്ങൾ ഞങ്ങൾ സംഗ്രഹിക്കുന്നു എന്നിട്ട് മുന്നോട്ട് പോകും സമയം അനുവദിക്കുകയാണെങ്കിൽ ഇംപെഡൻസ് മാച്ചിങ് മായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ശ്രമിക്കും ഇത് നിർണായകമാണ് സമയം കണ്ടെത്തുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അതിനാൽ ഞങ്ങൾ RF ഇംപെഡൻസ് മാച്ചിങ് നടത്തും തുടർന്ന് മറ്റ് അനുബന്ധ സംവിധാനങ്ങളായ IoT പ്രോട്ടോക്കോളുകളായ MQTT AMQP COAP എന്നിവയെ പറ്റി പറയാം അവ സെൻസർ നോഡുകളിൽ പ്രവർത്തിക്കാനും കേന്ദ്ര ഗേറ്റ്വേയിലേക്ക് ആശയവിനിമയം നടത്താനും ഉപയോഗപ്രദമാണ് LORA NBIOT LTE M പോലുള്ള ഞങ്ങൾ സംസാരിച്ച LPWAN പ്രോട്ടോക്കോളുകൾ ഗേറ്റ്വേയ്ക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും സിഗ്ഫോക്സ് മറ്റൊരു LPWAN സാങ്കേതികവിദ്യയാണ് അതിനാൽ ഈ പ്രോട്ടോക്കോളുകളിൽ ചിലത് മനസിലാക്കി അവിടെ നിന്ന് മുന്നോട്ട് പോകാം